അനിമൽ സെൽ കൽച്ചറിന്റെ ലെക്ചർ പരമ്പരയിലേക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഓർകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ ലെവെലിനെ കുറിച്ചാരുന്നു സംസാരിച്ചത് അതായത് അഡൽറ്റ് ന്യൂറോൺ കൽച്ചറിനായി എങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാമെന്ന് അതിനാൽ ആറാമത്തെ ആഴ്ചയിലും ഇതുതന്നെയാവും തുടരുക അതായത് വ്യത്യസ്ത പ്രേശ്നങ്ങളും വ്യത്യസ്ത വെല്ലുവിളികളും ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ ആധുനിക വിദ്യകളും എന്നിങ്ങനെ നിലവിലുള്ള സാങ്കേതിക വിദ്യകളിൽ ആവും ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും ശ്രെദ്ധ കേന്ദ്രികരിച് പിന്തുടരുക ഇവിടെ ഞാൻ നുറോണൽ സെല്ലുകളെ ഉദാഹരണമായി എടുത്തത് എന്തിനെന്നാൽ കാരണം ഇവയാണ് ഏറ്റവും ശ്രെമകരം ആയത്എന്നാൽ ഈ സെല്ലുകളിൽ നിങ്ങൾക്ക് ഒരു ഹാംഗ് നേടാൻ കഴിഞ്ഞെങ്കിൽ അടിസ്ഥാനകാര്യങ്ങൾ അതേപടി നിലനിൽക്കും എന്നാൽ മറ്റേതൊരു സെൽ തരത്തിനും നിങ്ങൾക്ക് ഇത് വിവർത്തനം ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂടുതൽ പരിചരണം തേടുന്നത് കാരണം ന്യൂറൊണൽ സെല്ലുകൾ കൾച്ചർ ചെയുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രേശ്നങ്ങളിലൂടെ കടന്നുപോകും ആദ്യത്തെ പ്രെശ്നം ഒരു വല്യ വെല്ലുവിളിയാണ് അതായത് ഒരു കൾച്ചർ ഡിഷിലെ ഇവയുടെ പുനരുത്പാദനശേഷി എന്നാൽ പുനരുല്പാദിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ ഈ പുനരുല്പാധിച്ചവക്ക് എത്രത്തോളം നല്ല ന്യൂറോണൽ മോർഫോളോഗിയാവും ഉണ്ടാവുക എന്നതാണ് രണ്ടാം ഘട്ടത്തിലെ വെല്ലുവിളി ഈ സെല്ലുകൾക് അവരുടെ ചുറ്റുപാടുമായി ക്രോസ്സ് ടോക്ക് ചെയുവാനായി തനതായ ഒരു കണക്റ്റിവിറ്റി ഉണ്ട് ഇവിടെയും ഈ കണക്റ്റിവിറ്റി എങ്ങനെ വീണ്ടെടുക്കാനാകും എന്നതാണ് മൂന്നാം ഘട്ട വെല്ലുവിളി സ്ലൈഡുകളിലൊന്നിൽ ഇവയെ എങ്ങനെ പാറ്റേൺ ചെയ്യാമെന്നും തുടർന്ന് ഈ സെല്ലുകൾ വൈദ്യുതപരമായി സജീവമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ചും പരാമർശിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിനാൽ എങ്ങനെയാണ് ഈ സെല്ലുകൾ വൈദ്യുതപരമായി സജീവമാണെന്ന് ഉറപ്പുവരുത്തുക അതിനാൽ ഇവിടെ ഒരുപാട് പ്രേശ്നങ്ങൾ ഉണ്ട് നമ്മൾ ഇൻ വിട്രോ സിസ്റ്റം വികസിപ്പിക്കുമ്പോൾ ഈ ഘടകങ്ങൾ പരിഗണിക്കപ്പെടുന്നുവെന്ന് മനസിലാക്കേണ്ടതുണ്ട് ഇതിലൂടെ മുതിർന്നവരുടെയോ ഭ്രൂണത്തിന്റെയോ ഗര്ഭപിണ്ഡത്തിന്റെയോ അവസ്ഥയെ പര്യവേക്ഷണം ചെയ്യാനും അനുകരിക്കാനും നിങ്ങൾക്ക് ശക്തമായ ഒരു മാതൃക ലഭിക്കും അതിനാൽ അഞ്ചാം ആഴ്ചയിലെ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ഒന്നുകൂടി ഓർത്തെടുക്കാം അൽഷെയ്മേഴ്സ്Alzheimer's രോഗത്തിനെതിരായി മരുന്നുകൾ സ്ക്രീൻ ചെയുവാൻ ഒരു ടെസ്റ്റ് ബെഡായിട്ടു അഡൽറ്റ് ഹിപ്പോകാമ്പൽ ന്യൂറോണുകളുടെ 3D പാറ്റേൺ നെറ്റ്വർക്ക് വേണം ഇതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അൽഷെയ്മേഴ്സ്Alzheimer's രോഗം എന്നുള്ളത് ഇവിടുത്തെ ഒരു ടെസ്റ്റ് കേസ് ആണ് നിങ്ങൾക് വേണമെങ്കിൽ പാർക്കിൻസൺ രോഗം എടുകാം അങ്ങനെ വരുമ്പോൾ ഹിപ്പോകാമ്പൽ ന്യൂറോൺ കൽച്ചറിന് പകരം സുബ്സ്റ്റൻഷ്യ നിഗ്ര വരും അതല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ആണെങ്കിൽ ഇത് കരൾ സെൽ കൽച്ചർ ആവാം അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് സെൽ കൽച്ചർ ആവാം ഇവിടെയൊക്കെ സ്ഥിതിഗതികൾ മാറും എന്നാൽ അവസാനം നിങ്ങൾ മനസിലാക്കേണ്ടത് എന്തെന്നാൽ ഇവ മിക്കതും സ്വയം കൂടിച്ചേർന്ന് പാറ്റേൺ 3D ഘടന ഉണ്ടാകുന്നവ ആണെന്നാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഇവ സ്വയം ഒത്തുചെർന്നിരിക്കുന്നു കാരണം സ്കാഫോൾഡിങ്ങിനും 3 ഡയമെന്ഷനൽ ഘടന ഉണ്ടാകുവാനും പ്രകൃതിക് അതിന്റെതായ വേരുകൾ ഉണ്ട് രണ്ടാമത് ഇത് 3 ഡയമെന്ഷനൽ ആണ് മൂന്നാമത് ഇത് ഒരു ഡയനാമിക് ഡയമെന്ഷനൽ ജ്യോമെട്രി ആണ് ഇത് വളരുന്നതാണ് എന്നാൽ നിയന്ത്രണമില്ലാതെ വളർന്നാൽ ഇതിനെ ട്യൂമർ അഥവാ കാൻസർ എന്ന് വിളിക്കും അതല്ലെങ്കിൽ ഈ ഡയമെന്ഷനൽ ജ്യോമെട്രി മറ്റെല്ലാഭാഗങ്ങളുമായി ക്രോസ്സ് ടോക്ക് ചെയുന്നു എന്ന് പറയാം അതിനാൽ ഏതു സെല്ലാണെങ്കിലും ഒരു ആന്തരിക ആശയവിനിമയ ചാനൽ ഉണ്ട് ഈ ഡയമെന്ഷനൽ ജ്യോമെട്രി ഏത് രൂപത്തിൽ ആണെങ്കിലും ബ്രൈനിൽ ആണെങ്കിലും പാൻക്രിയാസിൽ ആണെങ്കിലും ലിവറിൽ ആണെങ്കിലും ലങ്സിൽ ആണെകിലും ഇവ മറ്റ് സിറ്റവുമായി ഇടപഴകും രക്തം വിതരണം ചെയ്യുന്ന എൻഡോത്തീലിയൽ സിസ്റ്റവുമായി ഇടപഴകുന്നു നാഡീവ്യവസ്ഥയുമായി ഇടപഴകുന്നു അവിടെ എങ്ങനെ പ്രതികരിക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഉള്ളതിന് ആവശ്യമായ പ്രചോദനം നൽകുന്നു എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ഇടപഴകുന്നു അതുപോലെ ചുറ്റുമുള്ള മറ്റ് തരങ്ങളുമായും സംവദിക്കുന്നു എന്നാൽ നിങ്ങളിൽ ഒരാൾ ചോദിച്ചിരുന്നു ചുരുക്കത്തിൽ ഭാവി എന്താണ് അല്ലെങ്കിൽ ഈ ചെറിയ വിവരങ്ങളും പഠനങ്ങളും എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നു ഇതിനെകുറിച് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയുന്നതാവും എന്നാൽ ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു നിർണായക ഭാഗം നമ്മൾ സിസ്റ്റത്തെ ഒരു ഡിഷിൽ പുനർനിർമിക്കാൻ ശ്രെമിക്കുന്നു എന്നതാണ് അതായത് ഇതിന്റെ ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് ഇത് ചിലപ്പോ 2 ഡയമെൻഷൻ ആവാം ഭാവിയിൽ 3 ഡയമെൻഷനും അതിനാൽ ഈ മുഴുവൻ സിസ്റ്റത്തിന്റെയും വളരെ ചെറിയൊരു സിഗ്നേച്ചർ എങ്കിലും വഹിക്കുന്ന ഒരു മിനിയേച്ചറൈസ്ഡ് ടെസ്റ്റ് ബെഡ് നമ്മുക് ആവശ്യമാണ് അതായത് xl അഥവാ x ന്യൂറോൺ അതിന്റെ മുഴുവൻ സന്ദർഭത്തിലും ചെയുന്ന കാര്യങ്ങളെ പ്രീതിനിതീകരിക്കുന്ന ഒരു സിഗ്നേച്ചർ എന്നാൽ എന്റെ ചെറിയ പ്രോട്ടോടൈപ്പിനു ഈ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ നിരക്കിലെ ചെയ്യാൻ സാദിക്കു അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പാത പിൻതുടരുന്ന രീതിയിലേക് നമ്മുക് കാര്യങ്ങൾ ചെറുതാകാൻ കഴിഞ്ഞെങ്കിൽ ഇലക്ട്രോ ട്രാൻസ്മിറ്ററുകളെ ഉണ്ടാകുന്നതിനും ട്രാൻസ്മിറ്ററുകളെ ഡിസ്ചാർജ് ചെയ്യുന്നതിനും അതുവഴി ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് വൈദ്യുത പ്രേരണയെ അനുവദിക്കാനും അവർക്ക് കഴിയണം ഈ സെല്ലുകൾക് ആകണം എന്നാൽ ഇതുകൂടാതെ പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമാവുന്നു ഉദാഹരണത്തിന് ന്യൂറോണുകൾ പാളികളായാണ് കിടക്കുന്നത് ലെയർ 1 ലെയർ 2 ലെയർ 3 ലെയർ 4 നമ്മൾ ഇപ്പോൾ ആറാമത്തെ ആഴ്ചയിലെ ഒന്നാമത്തെ ലെക്ച്ചറിൽ ആണ് W6 L1 അതിനാൽ എനിക്ക് പറയാൻ ഉള്ളത് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം അതിനാൽ ന്യൂറോൻസുകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക് ശെരിയായി ബോധ്യപ്പെടാൻ ഒരു ബോക്സ് വരച്ചുകൊള്ളട്ടെ ഇതാണ് ബ്രയിനിന്റെ 3 ഡയമെൻഷനൽ ഘടന ഇത് x അക്ഷം ഇത് y അക്ഷം ഇത് ഉയരം അഥവാ z അക്ഷം ഇപ്പോൾ ഇവ ക്രമീകരിച്ചിരിക്കുന്ന രീതി ഇതുപോലെയാണ് ഉദാഹരണത്തിന് ഒരു പാളിയിൽ ഒരു ന്യൂറോൺ ആണ് ഉള്ളത് അതിനാൽ ഇത് ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കുന്നു ഇത് ഇവിടെ വീണ്ടും ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കുന്നു ഒരുപക്ഷേ അടുത്തുള്ള മറ്റൊരു പാളി നേരിട്ട് പോയി ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ടാകാം ഈ പരിസരത്ത് ഇരിക്കുന്ന മറ്റൊരു ന്യൂറോൺ ക്രിസ് ക്രോസ് ഉണ്ടാക്കി ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കുന്നു ഒരു ചെറിയ വിഭാഗത്തിൽ ഞാൻ ഇത്രയും സങ്കീർണ്ണത സൃഷ്ടിച്ചു ഇപ്പോൾ ഒരു 3 ഡി നെറ്റ്വർക്ക് ശരിക്കും എങ്ങനെയായിരിക്കുമെന്ന് സങ്കൽപ്പിച്ചുനോക്കൂ ഇങ്ങനെ ലയർ 1 ലയർ 2 ലയർ 3 എന്ന് വ്യത്യസ്ത ലെയറുകളായി ഇവയെ നമ്മൾ തിരിച്ചാൽ ഇവയുടെ നെറ്റ്വർക്കിനെ കുറിച് സംസാരിക്കുമ്പോൾ ഒരു നിയത്രണം കിട്ടില്ല ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ ലയർ 1 ലയർ 2 മായി സംവദിക്കുന്നുലയർ 1 ലയർ 3 മായും സംവദിക്കുന്നു മാത്രോമല്ല ലയർ 2 ലയർ 3 ഇവ രണ്ടുയുമായും ലയർ 1 സംവദിക്കുന്നു അതിനാൽ 3 ഡയമെന്ഷനൽ നെറ്റ്വർക്കിൽ വ്യത്യസ്ത തരം ലേയറിംഗും കണക്റ്റിവിറ്റിയും നടക്കുന്നു വളരെ എളുപ്പമുള്ള 2 D നെറ്വർക്കിനെ കുറിച് സംസാരിക്കുന്നപോലല്ല 3 ഡയമെൻഷനൽ നെറ്വർക്ക് ഉദാഹരണത്തിന് എനിക്ക് ഇതുപോലൊരു പാറ്റേൺ ഉണ്ടാകണം അതിനാൽ അതുപോലൊരു ഓവൽ ആകൃതിയിൽ ഉള്ള പാറ്റേൺ നിർമ്മിക്കാൻ കഴിയും ഇതുപോലൊരു പാറ്റെർണും ഉണ്ടാകാം അതല്ലെങ്കിൽ ചതുരാകൃതിയിൽ ഉള്ളതും ഉണ്ടാകാം ഇത്തരത്തിലുള്ള പാറ്റേൺ ജ്യോമെട്രികളിലേക്കു ഉടൻ വരുന്നതാരികും ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ഞാൻ അടുത്ത ആഴ്ചയിൽ നൽകാം അതിനാൽ നിങ്ങൾക്ക് ചതുരാകൃതിയിൽ ഉള്ള പാറ്റേണും ഉണ്ടാകാം അതുപോലുള്ള മറ്റ് അനവധി പാറ്റേർണുകളും ഉണ്ടാകാം എന്നാൽ 3D പാറ്റേൺ ഉണ്ടാകുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2 ഡയമെൻഷനൽ ഘടനയിൽ പാറ്റേൺ നിര്മിക്കുന്നതാണ് എളുപ്പം പാറ്റേർണുകൾക്ക് ഇത്ര പ്രാദാന്യം എന്തുകൊണ്ടെന്നാൽ ഇൻ വിട്രോ സജ്ജീകരണത്തിൽ ഇവ ഒരു ലയറിൽനിന്നും മറ്റൊരു ലയറുമായി ക്രോസ്സ് ടോക്ക് ചെയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പളും നമുക്കൊരു വെല്ലുവിളിയാണ് ഈ കാര്യങ്ങൾ വളരെ പ്രെധാനപെട്ടതാണ് കാരണം ഇവിടെ ഒരു പ്രേത്യേക ന്യൂറോട്രാൻസ്മിറ്ററിന്റെ ന്യൂറോണുകൾ ഇരിക്കുന്നു മറ്റെവിടെയെങ്കിലുമായി വേറൊരു തരം ന്യൂറോട്രാൻസ്മിറ്ററിന്റെ ന്യൂറോണുകൾ ഇരിക്കുന്നു എന്നിരിക്കട്ടെ ഇങ്ങനെയുള്ള ഇടപെടലുകളാണ് സിസ്റ്റത്തിന്റെ ഫിസിയോളോജിക്കൽ ഹൈലൈറ്റുകളെ നിർണയിക്കുന്നത് കൂടാതെ സിസ്റ്റത്തിന്റെ ഫിസിയോളജി മനസിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മോഡലുകൾ ഒരു ഇൻ വിട്രോ സെറ്റപ്പിൽ നിങ്ങൾ പുനർനിർമിക്കേണ്ടിവരും അതിനാൽ ഇങ്ങനെ ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് നിർത്തിയിടത് നിന്നും തുടങ്ങാം അവസാന ക്ലാസ് നിങ്ങൾ ഓർമ്മിക്കുന്നുടെങ്കിൽ ഇവിടെയാരുന്നു നമ്മൾ ഇവിടെ ന്യൂറോണുകളും ഗ്ലിയാൽ സെൽസും അടങ്ങിയ വേർതിരിക്കപ്പെട്ട അഡൽറ്റ് ഹിപ്പോകാമ്പൽ സെല്ലുകൾ ഉണ്ടായിരുന്നു ന്യൂറോണുകൾക്കുള്ളിലായി പിരമിടൽ സെൽസും ഇന്റർ ന്യൂറോൻസും അസ്ട്രോഗ്ലിയ അഥവാ അസ്ട്രോസൈറ്റ്സ് അഥവാ ഒലിഗോഡെൻഡ്രോസൈറ്റ്സും ഉണ്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക് ഈ സെല്ലുകളെ കൾച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെല്ലുകളെല്ലാം ഒരുമിച്ചവും ഇരിക്കുന്നത് എന്നാൽ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയിരിക്കും ഇതൊരു നെറ്റ്വർക്ക് ആണെന്ന് സങ്കല്പിക്കുക ഇവിടെ ഇതാണ് ഒലിഗോസ് ഇവ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് പിന്നെ ഇങ്ങനെ മൈലിനേറ്റ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ ഇവുടുത്തെ സങ്കീർണ്ണത മനസിലാക്കാൻ ശ്രമിക്കുക തുടർന്ന് ഈ സെല്ലുകളെ എങ്ങനെ വേർതിരികാം എന്ന് സംസാരികാം ഇവയെല്ലാം ഒലിഗോസ് ആണ് ഈ ഒലിഗോസുകൾ മെയ്ലിനേഷൻ പ്രക്രിയയിൽ ഉൾപ്പെടുന്നു അതിനാൽ നിങ്ങളിൽ നാഡീവ്യവസ്ഥയിലെ മയലൈനേഷൻ പ്രക്രിയയെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഒരു ഹ്രസ്വ ആശയം നൽകാം അതിനാൽ ഇവിടെ ഒരു ന്യൂറോൺ ഉണ്ട് ന്യൂറോൺ വരകുമ്പോളെല്ലാം അത് ഇങ്ങനെയാവും വരക്കുക നിങ്ങൾ ഇതുപോലൊരു പടം ടെസ്റ്ബുക്കുകളിൽ കണ്ടിട്ടുണ്ടാവും അക്സൊണിന്റെ ഇരുവശങ്ങളിലായും ഇതുപോലെ സ്ലീവ് പോലുള്ള ഘടന ഉണ്ടെന്നും നിങ്ങൾ കണ്ടിരിക്കും ഈ സ്ലീവ് പോലുള്ള ഘടനയെയാണ് മൈലിനേഷൻ അല്ലെങ്കിൽ മെയ്ലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത് ഇവക്കിടയിലാണ് നോഡ്സ് ഓഫ് രൺവീർ ഉള്ളത് ഇതാണ് പെരിഫെറൽ നാഡീവ്യവസ്ഥയിലെ ഒരു ക്ലാസിക്കൽ ന്യൂറോൺ നേരെമറിച്ച് സെൻട്രൽ നേർവസ് സിസ്റ്റത്തിലേ ഒരു ന്യൂറോൺ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ പിരമിഡ് പോലെ സെൽ ബോഡി ഉള്ള സെൻട്രൽ നേർവസ് സിസ്റ്റത്തിലേ ഹിപ്പോകാമ്പസിലെ പിരമിടൽ ന്യൂറോണിനെ വരക്കുന്നു ഇവിടായി ന്യൂക്ലിയസ് ഉണ്ട് എന്നാൽ മൈലിനേഷൻ പാറ്റേൺ കാണിക്കുന്നതിനായി ഞാൻ മറ്റൊന്നിനെ കൂടി ഇവിടെ വരക്കുന്നു നിങ്ങൾ ഒരു ബ്രെയിൻ സ്ലൈസ് അഥവാ ഹിപ്പോകാമ്പസ്സ് എടുക്കുമ്പോ അവയുടെ ക്രോസ്സെക്ഷനിൽ ഒരു പ്രേത്യേക സെല്ലുകളുടെ പരമ്പര കാണാനാകും ഇതിനെ ഞാൻ നീല നിറത്തിൽ കാണിക്കാം ഈ വളരെ ചെറിയ മൾട്ടിപോളാർ സെൽ ബോഡീസ് ഇതുപോലാവും ഇരിക്കുക ഇവിടെ ഞാൻ ഇതിനെ കുറച് വലുതായാണ് വരക്കുന്നത് ഈ മൾട്ടിപോളാർ സെൽ ബോഡീസ് ഇങ്ങനെയാണ് ക്രെമീകരിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുവാനായി 2 സെല്ലുകളെ എടുക്കുന്നുള്ളു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് വളരെ സങ്കീർണമാണ് നിങ്ങൾ ഇവിടെ കാണുന്നതുപോലെ ഈ നീല നിറത്തിൽ ഉള്ള ഘടനകൾ എല്ലാം ചേർന്ന് സമാനമായ ഒരു ആവരണമായി സമാനമായ ഒരു ഘടന സൃഷ്ടിക്കുന്നു ഇത് സെൻട്രൽ നേർവസ് സിസ്റ്റത്തിലെ ന്യൂറോണുകളിൽ നിങ്ങൾക് കാണാൻ കഴിയുന്ന ഒരു തരം മൈലൈനേഷനാണിത് എന്താണ് മൈലൈനേഷൻ അതിനാൽ ന്യൂറോണൽ സെല്ലുകൾ വൈദ്യുത പ്രേരണകൾ വഹിക്കുന്നുണ്ടെന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു കോർഡും വൈദ്യുത പ്രേരണകൾ വഹിക്കുമ്പോൾ അതിന് നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു ഇൻസുലേഷൻ കൊടുക്കാറുണ്ട് കാരണം അതിൽ സ്പർശിച്ചാൽ ഷോക്ക് ഏൽക്കുകയും വൈദ്യുതധാര നിങ്ങളുടെ ശരീരത്തിലൂടെ കടന്നുപോകുകയും ചെയ്യും ഇങ്ങനെ നിങ്ങളിൽ പരിഹരിക്കാനാകാത്ത നാശമുണ്ടാകും അതുപോലെ ന്യൂറോണുകളും വൈദ്യുത പ്രേരണകൾ വഹിക്കുമ്പോൾ അവ ചുറ്റുമുള്ള ന്യൂറോണുകളെയും സ്വാധീനിക്കും അതിനാൽ ചുറ്റുമുള്ള ന്യൂറോണിനെ സ്വാധീനിക്കാതിരിക്കാൻ ഉണ്ടായ സിഗ്നലുകളിൽ കേടുപാടുകൾ കൂടാതെ സെല്ലുകളിലൂടെ സഞ്ചരിക്കുന്നതിനായി ഒരു ഇന്സുലേറ്റഡ് കവറിങ് ഉണ്ട് ഈ ഇൻസുലേഷനെയാണ് മൈലീൻ ഷീത്ത് എന്ന് വിളിക്കുന്നത് ശരീരത്തിന്റെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ രണ്ട് വ്യത്യസ്ത തരം കോശങ്ങൾ സ്രവിക്കുന്ന പ്രോട്ടീനാണിത് എനിക്ക് ഈ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാനാരുന്നു കാരണം ഒരു ഡിഫൈൻഡ് സിസ്റ്റത്തെ കുറിച് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക് മനസിലാക്കാൻ സാധിക്കണം ഇപ്പോൾ നമ്മൾ ഒളിഗോഡെൻഡ്രോസൈറ്റ് അസ്ട്രോഗ്ലിയയുമായാണ് ഇടപഴകുന്നത് തുടർന്ന് ഇവയുടെ പ്രേവർത്തനങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണു ഇവയെ വേർതിരിക്കുന്നതെന്നും ഒരു സിസ്റ്റത്തിലേക്ക് വീണ്ടും എങ്ങനെ ഇവയെ കൊടുക്കാൻ ആവുമെന്നും ഞാൻ വ്യക്തമാകുന്നതാവും അതിനാൽ അടുത്ത ക്ലാസ്സിൽ ആദ്യം യഥാർത്ഥ ജീവിതത്തിൽ ഒരു സെൽ എങ്ങനെ മൈലൈനേറ്റ് ചെയ്യപ്പെടുന്നുവെന്നും ഒരു സെൽ കൾച്ചർ മോഡൽ സൃഷ്ടിക്കേണ്ടതുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്തെടുക്കാമെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം മൈലൈനേഷൻ ആ സെൽ വീണ്ടും കൊടുക്കുമ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് സംസാരിക്കാം കാരണം മൈലൈനേഷൻ ഇല്ലാത്ത ഒരു ന്യൂറോണൽ സെല്ലിന്neuronal cell0 വൈദ്യുത സിഗ്നലിനെ കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അതിന് മുകളിൽ ഒരു ആവരണവും ഇല്ല നിങ്ങൾ സൃഷ്ടിക്കുന്ന സെർവർ മോഡലിന് അത്തരത്തിലുള്ള മൈലിനേഷൻ കവർ ഇല്ലെങ്കിൽ അത് അപൂർണ്ണമോ അല്ലെങ്കിൽ അനുചിതമോ ആയിരിക്കും അതിനാൽ ഞാൻ ഇവിടെ നിർത്തുന്നു അടുത്ത ക്ലാസ്സിൽ അഡൽറ്റ് ഹിപ്പോകാമ്പൽ ഡിസോസിയേറ്റഡ് സെല്ലിനെയും അവയെ എങ്ങനെ വേർതിരിക്കും എന്നത്തിലേക് വരുന്നതിനു മുൻപ് നമ്മുക് മൈലൈനേഷനിലേയും ഇൻവിട്രോ സെറ്റപ്പിലെയും പ്രേശ്നങ്ങളെ കുറിച് സംസാരികാം കാരണം ഇത് നമ്മളെ സെൽ സെപ്പറേഷൻ പാരാമീറ്ററുകളിലേക്കും ഈ പ്രശ്നം എങ്ങനെ ടാർഗെറ്റുചെയ്യാനാകും എന്നതിലേക്കും പതിയെ കൊണ്ടുപോകും